കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഉപയോഗിച്ചുള്ള PML നടപ്പിലാക്കൽ അതിനാൽ നമുക്ക് ഒരു 1D ഉദാഹരണം എടുക്കാം അതിനാൽ പരിഹാരം എങ്ങനെ രൂപത്തിലായിരിക്കും അതിനാൽ ഇതുപോലുള്ള എന്തെങ്കിലും ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ഏത് ദിശയിലാണ് ഈ തരംഗം സഞ്ചരിക്കുന്നത് ശരിയാണ് ഏത് ദിശയിലായാലും ഇത് ദിശയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാം അതിനാൽ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ രണ്ട് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ ഉദാഹരണത്തിന് കേൾ E യുടെ സമവാക്യമാണ് ഞാനാദ്യം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ എന്ന ഈ ഓപ്പറേറ്റർ ശരിയായി എഴുതുന്നു അതിനാൽ വ്യക്തതയ്ക്കായി ഞാൻ എന്ന് എഴുതാം അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ ഞാൻ എന്താണ് എഴുതേണ്ടത് ഇത് എന്റെ ഘടകമാണ് ഏത് ഘടകമാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ദിശയിൽ മാത്രമാണ് ഘടകം മാത്രമേ നിലനിൽക്കൂ അതിന്റെ മൂല്യം എന്തായിരിക്കും വിദ്യാർത്ഥി ഡെൽ by ഡെൽ z ഓഫ് E x ഡെൽ by ഡെൽ z ഓഫ് E x അതിനെ വീണ്ടും ലളിതമാക്കി വിദ്യാർത്ഥി അവിടെ ഒരു അവിടെ ഒരു z ഘടകം ഉണ്ടെന്നോ ഇല്ല കാരണം ൻറെ എന്നാൽ 0 ആണ് അതിനാൽ ഇത് എനിക്ക് തരും ഇത് എന്റെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾക്ക് തുല്യമാകുമെന്ന് എനിക്കറിയാം അതിനാൽ ഞാൻ പ്രതീക്ഷിച്ച വൈദ്യുത മണ്ഡലം ദിശയിലും കാന്തിക മണ്ഡലം ലും ആണ് അതിനാൽ y ഘടകത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം അതാണ് കാന്തികക്ഷേത്രത്തിന്റെ y ഘടകം പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഒരു ബന്ധം കൂടി വേണമെങ്കിൽ രണ്ടാമത്തെ മാക്സ്വെല്ലിന്റെ സമവാക്യം ഞാൻ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ എനിക്കിത് കൊടുക്കേണ്ടതുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ചെറിയ കളും ചെറിയ കളും തമ്മിലുള്ള ബന്ധം ലഭിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ വീണ്ടും ആകും

എനിക്ക് എന്ത് ഘടകങ്ങൾ ഉണ്ട് ശരി ഏത് ഘടകമാണ് ഇവിടെ നിന്ന് നിലനിൽക്കുന്നത് വിദ്യാർത്ഥി x ഹാറ്റ് ശരിയാണ് എനിക്ക് എന്ന് ലഭിക്കുന്നു അതിനാൽ നമുക്ക് ഇതിനകം തന്നെ യ്ക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അതിനാൽ നമ്മൾ അത് ഇവിടെ മാറ്റിസ്ഥാപിക്കും അതിനാൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് അതിനാൽ ഇതിനകം ഉണ്ടായിരുന്ന യുടെ മൂല്യം ഞാൻ മാറ്റിസ്ഥാപിച്ചു അത് എനിക്ക് ഒരു പ്ലസ് j k z നൽകി ക്ക് ഇതിനകം ഒരു ഉണ്ടായിരുന്നു അതിനാൽ അത് ആകുന്നു ഛേദത്തിൽ ഉണ്ടായിരുന്നു അതിനു കൂടെ ഉം ഉണ്ട് അതിനാൽ ഇവിടെ ബീജഗണിതം നല്ല രീതിയിലാണ് അതിനാൽ അത് ആണ് ഞാൻ ഇത് എന്തുമായി ബന്ധപ്പെടുത്തും ഈ മുഴുവൻ പദങ്ങളും മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളാൽ അതിന് തുല്യമായിരിക്കണം ആയിരിക്കണം അതായത് അതിനാൽ ഇതിനു ലളിതമായ അധ്വാനം മതി ഇവിടെ ഞാൻ ചെയ്തത് ഡെൽ പുനർനിർവചിച്ചു എന്നതുമാത്രമാണ് അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഇവിടെ താരതമ്യം ചെയ്താൽ കുറേയധികം പദങ്ങൾ ഒഴിവാക്കപ്പെടും ഉദാഹരണത്തിന് എക്സ്പോണൻഷ്യൽ ഒഴിവാക്കുന്നു j ഒഴിവാക്കുന്നു മറ്റെന്തെങ്കിലും ഒഴിവാക്കുന്നുണ്ടോ ഇല്ല എനിക്ക് ഒരു ലഭിക്കുന്നു ഡിനോമിനേറ്റർ ആകും ബാക്കിയുള്ള പദങ്ങളെ മറുവശത്തേക്ക് ഞാൻ എടുക്കുന്നു അപ്പോൾ എനിക്ക് ലഭിക്കുന്നത് എന്നാണ് എന്നതിനെ എനിക്ക് ഒരു പ്രകാശന വേഗത മായി ബന്ധപ്പെടുത്താം അതിനാൽ ഇത് ആണ് നേരത്തെ നമ്മുടേത് ഒരു പ്രകീർണനത്തിൻറെ ബന്ധം പോലെയാണ് ഒരു തരംഗ വെക്റ്ററും ആവൃത്തിയും തമ്മിലുള്ള ബന്ധമാണ് പ്രകീർണനത്തിൻറെ ബന്ധം ഒരു സ്വതന്ത്ര സ്ഥലത്ത് എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പ്രകീർണനത്തിൻറെ ബന്ധം എന്താണ് ഇത് ഇപ്പോൾ എനിക്ക് താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകീർണനത്തിൻറെ ബന്ധം തരുന്നു അപ്പോൾ ഫലപ്രദമായി എന്താണ് സംഭവിച്ചത് എനിക്ക് ഒരു പുതിയ പ്രകീർണനത്തിൻറെ ബന്ധം ലഭിച്ചു തരംഗ വെക്റ്ററും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചില ഘടകങ്ങളാൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാം അതിനാൽ പ്രായോഗിക സാഹചര്യത്തിൽ ഇതിന് യാതൊരു പ്രസക്തിയുമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം അത്തരം സാഹചര്യങ്ങളിൽ എന്നിവയെല്ലാം 1 ആയിരിക്കും നമുക്ക് ഉറപ്പായും നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ കണ്ടെത്തിയത് സ്ഥിരതയുള്ളതാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ സമവാക്യത്തിൽ തുടരാം അത് ഇവിടെ നിലനിൽക്കും ഇപ്പോൾ നമുക്ക് 3D യിലേക്ക് പോകാം നമ്മൾ 1D സാഹചര്യങ്ങളിൽ ചെയ്തത് എന്തായിരുന്നു അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണയായി ഒരു ഉണ്ടായിരിക്കും അതായത് ഇത് ഒരു ദിശയിലുള്ള തരംഗമാണ് പക്ഷേ പൊതുവേ എന്നിങ്ങനെയും ഉണ്ടാകുന്നതാണ് ഇതൊരു 3D യിലെ തരംഗമാണ് അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും അതിനാൽ ഗണിതം ഉപയോഗിക്കാതെ നിങ്ങൾ എന്താണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് സമവാക്യം 1 അതിനാൽ എല്ലായ്പ്പോഴും കാണപ്പെടും അതിനാൽ എനിക്ക് ഉണ്ട് 1D യുടെ കാര്യത്തിൽ ആയിരുന്നു അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എപ്പോൾ എന്ത് സംഭവിക്കും താഴെയുള്ള മൂല്യം അപ്പോൾ കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഇല്ലാതിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇത് ആയിമാറി ഇപ്പോൾ എന്തു സംഭവിക്കും

അതിനാൽ നിങ്ങൾക്ക് പോയി അത് കണ്ടെത്താം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ പദപ്രയോഗമാണ് കണ്ടെത്താൻ കഴിയുക അതിനാൽ നമ്മൾ ഇതിനെ നമ്മുടെ സമവാക്യം 2 എന്ന് വിളിക്കും എന്നതിനെയാണ് നമ്മൾ സ്വതന്ത്ര ഇടം k നോട്ട് സ്ക്വയർ എന്ന് വിളിച്ചത് ഇത് എന്ന തരത്തിലുള്ള ഉള്ള ഒരു ഭൌതികശാസ്ത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ലഭിക്കുന്ന പുതിയ പദപ്രയോഗമാണെന്നാണ് അതിനാൽ മറ്റ് രണ്ട് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കുണ്ടായിരുന്ന ആദ്യ രണ്ട് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി പുറകോട്ടു പോകാം അതിനാൽ ഈ പദപ്രയോഗവും ഈ പദപ്രയോഗവും നമുക്ക് ലഭിച്ച ഈ പുതിയ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മാറ്റിസ്ഥാപിക്കുന്നുവെന്ന് കരുതുക നമുക്ക് എന്ത് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് എന്ന് ലഭിക്കും അതിനു മുൻപായി ഞാൻ ഇനിപ്പറയുന്നവ ചെയ്യട്ടെ എല്ലായ്പ്പോഴും ഡിനോമിനേറ്ററിൽ നോടും നോടും കൂടിയാണ് വരുന്നതെന്ന് നിങ്ങൾ കണ്ടിരിക്കും അതിനാൽ രണ്ട് പുതിയ തരംഗ വെക്റ്ററുകൾ ഞാൻ നിർവ്വചിക്കട്ടെ അങ്ങനെ ഭാഗവുമായി ബന്ധപ്പെട്ടതും എന്നത് ഭാഗവുമായി ബന്ധപ്പെട്ടതും അതിനാൽ ഞാൻ ചെയ്യുന്നത് ഇതിനെ ഞാൻ എന്നായി നിർവ്വചിക്കുന്നു കൂടാതെ നെ ഞാൻ എന്ന അതേ രീതിയിൽ നിർവ്വചിക്കും ഗണിതം കുറച്ചുകൂടി ലളിതമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവ രണ്ടും എടുക്കുന്നത് അതിനാൽ ഞാൻ ഇവ രണ്ടും ഒരുമിച്ച് ചേർക്കുമ്പോൾ എനിക്ക് സമവാക്യം 2 വീണ്ടും എഴുതാൻ കഴിയുമോ ഇത് ഏതിൻറെയെങ്കിലും ഡോട്ട് പ്രൊഡക്ട് പോലെ കാണപ്പെടുന്നുണ്ടോ ഈ രണ്ട് തരംഗ വെക്റ്ററുകളുടെയും ഡോട്ട് പ്രോഡക്റ്റ് ശരിയല്ലേ ഇതാണ് ഇതിന് പിന്നിലെ പ്രചോദനം ഇപ്പോൾ എന്നത് ആകുന്നു പദങ്ങളെ വെറും ലളിതമാക്കുന്നു നിങ്ങളുടെ യുടെ ആദ്യ സമവാക്യം എനിക്ക് സമാന തരംഗമാകുമ്പോൾ ഇത് ഉപയോഗിച്ച് മാറ്റിയിരുന്നു ഇത് ഒരു ലളിതവൽക്കരണമായി നമ്മൾ കണ്ടു അതിനാൽ ഇത് എന്നാകുന്നു ഇവിടെ j ഒഴിവാക്കുന്നു രണ്ടാമത്തെ സമവാക്യം കേൾ h അതിനാൽ ആയി മാറുന്നു k h ന് കൃത്യമായി ഉണ്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ ഇത് ൻറെ നിർവചനം ഉൾക്കൊള്ളുന്നുഈ പദങ്ങൾ എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നു അതിനാൽ ഞാൻ കടന്നുപോയ എല്ലാ സമവാക്യങ്ങളും ഉപയോഗിച്ച് എളുപ്പത്തിനായി പുതിയൊരു സമവാക്യം ആദ്യം സൃഷ്ടിക്കാം ലളിതമാക്കുന്നതിനായി എല്ലാ സമവാക്യങ്ങളും ഞാൻ വീണ്ടും എഴുതുകയാണ് ഇപ്പോൾ സമവാക്യം 2 നോക്കുമ്പോൾ എന്നതിൻറെ ഏത് രൂപമാണ് ഇതിനൊരു പരിഹാരമായി എനിക്ക് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നത് അതിനാൽ സമവാക്യം 2 വ്യാഖ്യാനിക്കാൻ നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാം അതിനാൽ സമവാക്യം 2 എന്നീ വേരിയബിളുകളിൽ ഉള്ള ഒരു ത്രിമാന സമവാക്യമാണ് എന്നിവയെല്ലാം ഞാൻ തിരഞ്ഞെടുത്ത ചില സംഖ്യകളാണ് അപ്പോൾ സമവാക്യം 2 നിങ്ങളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് വിദ്യാർത്ഥി എലിപ്സോയ്ഡ് ഇത് ഒരു എലിപ്സോയ്ഡിൻറെ സമവാക്യമാണ് ഈ എലിപ്സോയ്ഡ് എനിക്ക് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുടെ ഒരു മുഴുവൻ കുടുംബവും യുടെയും ൻറെയും വ്യത്യസ്ത മൂല്യങ്ങൾക്കായി നൽകുന്നു ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുമ്പോൾ ആ എലിപ്സോയ്ഡ് ഇവിടെ ഒരു വൃത്തമോ ഗോളമോ ആകുന്നു അതിനാൽ നിങ്ങൾ പോളാർ കോർഡിനേറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു എലിപ്സോയ്ഡിലേക്കോ ദീർഘവൃത്തത്തിലേക്കോ പരിഹാരം എഴുതുന്നതിനുള്ള വളരെ ലളിതമായ ഒരു പാരാമട്രിക് മാർഗമുണ്ട് അതിനാൽ നിങ്ങൾ ഇത് നേരത്തെ കണ്ടിരിക്കാം അതിനാൽ എനിക്ക് ഇത് ഇങ്ങനെ എഴുതാം അതിനാൽ ആരം ഞാൻ ഉദ്ദേശിക്കുന്നത് വലതു വശത്തുള്ള എന്റെ ആണ് ഞാൻ അതിനെ എന്ന് വിളിക്കുന്നു എന്നത് സെമി മേജർ ആക്സിസിൻറെ നീളം പോലെയാണ് കൂടെ യും ഉണ്ട് സമാനമായി നിങ്ങൾക്ക് അതിൻറെ തുടർച്ച മനസ്സിലായിരിക്കും അങ്ങനെ അതിനാൽ ഇപ്പോൾ ഈ പരിഹാരമാണ് യഥാർത്ഥത്തിൽ PML ന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് അതിനാൽ ഇപ്പോൾ അങ്ങനെ തോന്നാത്തതിനാൽ ഇവിടെ നമ്മൾ ഒരു ലോകത്ത് കുറച്ച് കളും കളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കരുതുക അതുപയോഗിച്ച് നമ്മൾ പുതിയ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ പരിഹരിക്കുകയും ചെയ്തു എന്നാൽ നമുക്ക് നിഗമനത്തിലേക്ക് നോക്കാം അതിനാൽ ആദ്യം ഒരു ചെറിയ ചിഹ്നരൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇതിനെ ഒരു പൊരുത്തപ്പെട്ട മാധ്യമം എന്ന് വിളിക്കുന്നു അത് വെറും പദാവലി മാത്രമാണ് ഇത് ഇപ്പോൾ പൊതുവായ രീതിയിൽ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഞാൻ എവിടെയാണ് എത്തേണ്ടത് എന്ന് ഞാൻ കാണാൻ തുടങ്ങി അതിനാൽ ഞാൻ വൈദ്യുത ഘടകങ്ങളെ കാന്തിക ഘടകങ്ങൾക്ക് തുല്യമാക്കുമ്പോൾ ഞാൻ അതിനെ പൊരുത്തമുള്ള മാധ്യമം എന്ന് വിളിക്കുന്നു അത് വെറും പദാവലി മാത്രമാണ് എന്നാൽ കൂടുതൽ പ്രധാനപ്പെട്ട നിഗമനം ഇവിടെ വരുന്നു ഇപ്പോൾ എല്ലാ e കളും എല്ലാ h കൾക്കും തുല്യമാണ് അതിനാൽ ഈ മൂന്ന് പരിഹാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം ഉദാഹരണത്തിന് ഈ പരിഹാരം ഇവിടെയുണ്ട് അത് എന്തായിരിക്കും അതു തന്നെയാണ് ഈ പൊരുത്തപ്പെടുന്ന അവസ്ഥയിൽ സാധാരണയായി ഈ തരംഗ വെക്റ്ററുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇവ തരംഗ വെക്റ്ററുകളാണെന്നും അവ യുമായി യോജിക്കുന്നുവെന്നും ഞാൻ അർത്ഥമാക്കുന്നു എന്നതിനെ മൂന്ന് യഥാർത്ഥ സംഖ്യകളുടെ സംയോജനമായി ഞങ്ങൾ ചിന്തിക്കുന്നത് പതിവാണ് അത് എനിക്ക് ഒരു പ്രത്യേക ദിശയിൽ സഞ്ചരിക്കുന്ന തരംഗം നൽകുന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് നമ്മൾ സങ്കീർണ്ണമാക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും എൻറെ ന് എന്തു സംഭവിക്കും എൻറെ പൊരുത്തമുള്ള മാധ്യമത്തിന് ഉള്ള ഇതാണ് അപ്പോൾ ആ തരംഗം ആകുന്നത് ശരിയാണ് അത് എന്തായി മാറും അതിനാൽ അങ്ങനെയാണെന്ന് കരുതുക അപ്പോൾ രൂപത്തിലുള്ള ഒരു തരംഗം രൂപത്തിലേക്ക് ആയി മാറി ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കുന്നു ഇത് ആയി മാറുന്നു അത് ആകുന്നു എന്താണ് അതിനർത്ഥം വിദ്യാർത്ഥി ക്ഷയിക്കുന്നു ഇതൊരു ക്ഷയിക്കുന്ന തരംഗമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഒരു പരിണാമ തരംഗമാണ് അതിനാൽ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന നിഗമനം ഞാൻ ഇവിടെ നിന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ വ്യാഖ്യാനം കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഒരു പരിണാമ തരംഗം സൃഷ്ടിക്കുന്നതിനോ പ്രതിനിധീകരിക്കുന്നതിനോ തുല്യമാണ് എന്റെ e കൾ ഉചിതമായി തിരഞ്ഞെടുക്കുന്നതിലൂടെ ഞാൻ ചില സംഖ്യകളായി e കളെ തിരഞ്ഞെടുത്താൽ അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു സഞ്ചാര തരംഗം ലഭിക്കും പക്ഷേ ഞാൻ സങ്കീർണ്ണമായ e കൾ തിരഞ്ഞെടുത്താൽ എനിക്ക് ഒരു പരിണാമ തരംഗം ലഭിക്കാൻ സാധിക്കും അതിനാൽ രണ്ട് വ്യാഖ്യാനങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതാണ് കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് പരിണാമ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതിനു തുല്യമാണ് അതിനാൽ സമവാക്യം 2 ന് ഒരു പരിഹാരം എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് ഇതാണ് PML ന്റെ അന്തർധാര കാരണം കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് എന്ന് വിളിക്കപ്പെടുന്നതിലൂടെ ഫലപ്രദമായി ഞാൻ പരിണാമ തരംഗങ്ങൾ ഉയരുന്ന ഒരു മാധ്യമം സൃഷ്ടിക്കുന്നു കൂടാതെ ഓരോ ദിശയിലും എനിക്ക് സ്വതന്ത്രമായ നോബുകൾ ഉണ്ട് x ൽ എനിക്ക് ഉണ്ട് y ൽ ഉണ്ട് z ൽ എനിക്ക് ഉണ്ട് അപ്പോൾ അത് എന്തിനോട് യോജിക്കുന്നു അനിസോട്രോപിക് പ്രജനനം കാരണം എല്ലാ ദിശയിലും പ്രചാരണ സ്ഥിരത വ്യത്യസ്തമാണ് അവയിൽ ഓരോന്നിനും എനിക്ക് നിയന്ത്രണമുണ്ട് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ അനിസോട്രോപിക് ലോസി മീഡിയമാണ് അതിനാൽ ഇവയെ തുടക്കത്തിൽ തന്നെ ഞാൻ PML ന്റെ രണ്ട് വ്യാഖ്യാനങ്ങളാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു ഇത് എങ്ങനെ ശരിയായി വരുന്നുവെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും എനിക്ക് ടെൻസറുകളോ അത്തരം കാര്യങ്ങളോ കൈകാര്യം ചെയ്യേണ്ടതില്ല എനിക്ക് നമ്മുടെ സാധാരണ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളും കോർഡിനേറ്റ് സ്ട്രെച്ചിംഗും ഉപയോഗിച്ചാണ് ലഭിച്ചത് അതിനാൽ ഇതാണ് PML ന്റെ തത്വം ബാക്കി എല്ലാം വിശദാംശങ്ങളാണ് അത് z ആയതിനാൽ അത് ൽ ഉണ്ട് ഇവിടത്തെ ഈ സമവാക്യമോ വിദ്യാർത്ഥി അതെ രണ്ടാമത്തെ വരി ഞാൻ x എന്നെഴുതി ഇതിപ്പോഴും z ആണ് അത് x പോലെ തോന്നുന്നുണ്ട് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഇവരണ്ടുമാണ് വിദ്യാർത്ഥി അതെ നമുക്ക് അത് വലുതാക്കി എഴുതണം ൻറെ മോഡുലസ് 1 നേക്കാളും ചെറുതാകുമോ ശരിയാണ് അതെങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് എന്നെ ആശ്രയിച്ചിരിക്കും വിദ്യാർത്ഥി കാരണം നിങ്ങൾ ശരി നല്ലത് അതിനാൽ നമ്മൾ എങ്ങനെ ചെയ്തു എന്നതാണ് ചോദ്യം നമ്മൾ ഇതുവരെ ചെയ്തത് എന്താണ് നമ്മൾ കളെ കൾക്ക് തുല്യരായിരിക്കുന്നു സങ്കീർണ്ണമായിരിക്കണം വ്യാഖ്യാനിക്കുന്നത് നഷ്ടം സംഭവിക്കുന്ന മാധ്യമമാണ് എന്റെ അടുത്ത ചോദ്യം ഇപ്പോൾ ശരിയാണ് എനിക്ക് ഏറ്റവും പ്രത്യേകമായി ഞാൻ എന്ത് മൂല്യം സജ്ജമാക്കണം അതിനാൽ ഞാൻ പ്രതിഫലന ഗുണകം നോക്കി അത് പൂജ്യമാക്കുന്നത് എങ്ങനെയെന്ന് നോക്കേണ്ടതാണ് എന്തെല്ലാം മൂല്യങ്ങളാണ് നായി സജ്ജമാക്കേണ്ടതെന്ന് അത് തന്നെ എന്നോട് പറയും മോഡുലസ് 1 നേക്കാളും കുറവോ കൂടുതലോ അതോ ഒന്നിനു തുല്യമോ ആണ് അതിനാൽ തുടർന്ന് നമുക്ക് അതിലേക്ക് വരാം